ഡ്രെയിൻ സ്വഭാവസവിശേഷതകൾ ട്രാൻസ്ഫർ സ്വഭാവസവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഡിപ്ലിഷൻ തരം മോസ്ഫെറ്റ് തമ്മിലുള്ള ബന്ധം എങ്ങനെ നേടാമെന്ന് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നാം കണ്ടു നമ്മൾ ഉദാഹരണങ്ങളും കണ്ടു ഈ പ്രഭാഷണത്തിൽ നമുക്ക് MOSFET ൻറെ നിലവിലെ കറൻറ് വോൾട്ടേജ് സവിശേഷതകൾ എങ്ങനെ നേടാമെന്ന് നോക്കാം നിലവിലെ ഈ മോസ്ഫെറ്റ് മിററായി എങ്ങനെ ഉപയോഗിക്കാം നമുക്ക് ഇവിടെ ഒരു N ചാനൽ MOSFET ഉണ്ട് നമുക്ക് പി തരം സബ്സ്ട്രേറ്റ് ഉണ്ട് തുടക്കത്തിൽ ചാനൽ രൂപീകരണമൊന്നുമില്ല പക്ഷേ Vgs VT യെക്കാൾ വലുതാകുമ്പോൾ ചാനലിന്റെ രൂപീകരണം ഉണ്ടാകും ഞാൻ ഈ രീതിയിൽ വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ അതായത് ഉറവിടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗേറ്റ് പോസിറ്റീവ് ആണ് എന്ത് സംഭവിക്കും Vgs VT യേക്കാൾ വലുതാകുമ്പോൾ ചാനൽ രൂപീകരണം എന്തുകൊണ്ട് സംഭവിക്കുന്നു ഒരു ലോഹവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഗേറ്റ് എനിക്കുണ്ട് ഒരു ഓക്സൈഡ് പാളി ഉണ്ട് മറ്റൊരു ലോഹമുണ്ട് നിങ്ങളുടെ ചാനൽ ഇലക്ട്രോണുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് SiO2 ലെയർ ഇൻസുലേറ്റ് ചെയ്ത് വേർതിരിച്ച 2 ചാലക പ്ലേറ്റുകളുണ്ട് ഇത് ഒരു കപ്പാസിറ്ററിന് സമാനമാണ് 2 വൈദ്യുത വസ്തുക്കളോ വായുവോ ഉപയോഗിച്ച് വേർതിരിച്ച പ്ലേറ്റുകൾ പോലെയാണ് ഇവ അതിനാൽ കപ്പാസിറ്ററിന്റെ രൂപീകരണം ഉണ്ട് നിങ്ങൾ ഒരു പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ സബ്സ്ട്രേറ്റ് യിൽ നിന്നുള്ള ഇലക്ട്രോണുകൾ ഗേറ്റിലേക്ക് ആകർഷിക്കപ്പെടുകയും ചാനൽ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ ഈ ചാനൽ 1 പ്ലേറ്റ് ആയി മാറുന്നു അത് കണക്ട് ചെയ്യുന്ന ലോഹം മറ്റൊരു പ്ലേറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഈ 2 പ്ലേറ്റുകൾക്കിടയിൽ ഇൻസുലേറ്റർ ഉണ്ട് അതിനാൽ ഇതാണ് നിങ്ങളുടെ കപ്പാസിറ്റർ ഇപ്പോൾ എനിക്ക് കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് CkAεod നിലവിലെ I dq dt എന്ന് നമുക്കറിയാം ചാർജ്ജ് qCVεoWLto

ഉറവിടത്തിനും ഡ്രെയിനിനുമിടയിൽ ചാനലുകൾ രൂപീകരിക്കുന്നതിന് ഉത്തരവാദികളായ ഏറ്റവും കുറഞ്ഞ വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജാണ് VGS VT VGS VT യെക്കാൾ വലുതാണെന്ന് ശ്രദ്ധിക്കുക t LV LµnE L2µnVDS ഒപ്പം IDµnεotoWLVDS VDS ഉയർന്നതാണെങ്കിൽ Q CV εoWL VGS VT VDS 2 to നമുക്ക് -VDS2 ഉണ്ട് കാരണം ഉയർന്ന VDS നായി ചാനലിനു നടുവിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് പരിഗണിക്കേണ്ടതുണ്ട് ആ പോയിൻറ്ലെ വോൾട്ടേജ് ഉറവിടത്തിലും ഡ്രെയിനിലും ഇടയിൽ പ്രയോഗിച്ച് വോൾട്ടേജിൻറെ പകുതി ആയിരിക്കും അതിനാൽ t L2µnVDS ഇപ്പോൾ ID മാറുന്നു IDµnεotoWLVGS VT VDS2VDS ID യുടെയും VDS ന്റെയും ഈ സമവാക്യം ഒരു വിപരീത പരാബോള പോലെ കാണപ്പെടുന്നു ഞാൻ VDS VGS VT യുടെ മൂല്യം മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ IDµnεotoWLVGS VT VGS VT 2 ഈ പ്രദേശത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം IDS VDS ൽ നിന്ന് സ്വതന്ത്രമാണ് ഇത് VGS നെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു ഇവിടെ ചാനൽ ദൈർഘ്യ മോഡുലേഷൻ എന്താണ് ഞാൻ VDS വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ VGS സാവധാനം മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിലും പ്രാരംഭ ചാനൽ ഡ്രെയിൻ ഭാഗത്തേക്ക് ചുരുങ്ങാൻ തുടങ്ങും ഉറവിടവും ഡ്രെയിനും തമ്മിലുള്ള പ്രാരംഭ ദൈർഘ്യം L ആണെങ്കിൽ ചുരുക്കിയ ചാനലിന്റെ അളവ് ∆L VD saturation VGS VT ഇവിടെ I VDS VD saturation ഈ സാഹചര്യത്തിൽ വിപരീത ചാർജ് സംഭവിക്കും എന്റെ ID യുടെ സമവാക്യം താഴെ പറയുന്നത് ആയിരിക്കും ID LIDL ∆L IDkn2WL2 1λVDS ചാനൽ ദൈർഘ്യ മോഡുലേഷൻ പരാമീറ്റർ ആവശ്യമുള്ളപ്പോൾ പരിഗണിക്കേണ്ട സൂത്രവാക്യമാണിത് λ ബന്ധപ്പെട്ട പ്രതിരോധം ro ∂ID∂VDS 1 kn2WL2λ 1 λ യുടെ ചെറിയ മൂല്യങ്ങൾക്ക് ro 1λID VDS അക്ഷത്തിൽ ID വേഴ്സസ് VDS പ്ലോട്ടിലെ ഇന്റർസെക്ഷൻ പോയിന്റ് പ്ലോട്ട് ചെയ്യുക ട്രയോഡ് മേഖലയും സാച്ചുറേഷൻ മേഖലയും അടയാളപ്പെടുത്തുക ചരിവിന്റെ സമവാക്യം എഴുതുക ഇപ്പോൾ നമുക്ക് മോസ്ഫെറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ നോക്കാം അതായത് കറൻറ് മിറർ നിങ്ങൾക്ക് ഒരു കണ്ണാടി ഉണ്ടെന്ന് പറയാം കണ്ണാടി എന്റെ മുഖത്തിന് മുന്നിൽ വച്ചാൽ എനിക്ക് ചിത്രം കാണാൻ കഴിയും ചിത്രം കണ്ണാടിയിൽ പകർത്തി നിങ്ങളുടെ ചിത്രത്തിന്റെ വിപുലീകരിച്ച പതിപ്പും അല്ലെങ്കിൽ നിങ്ങളുടെ ചിത്രത്തിന്റെ ചുരുങ്ങിയ പതിപ്പും മിറർ കാണിക്കുന്നു അതായത് നിങ്ങളുടെ വ്യത്യസ്ത ഇമേജുകൾ കാണിക്കാനുള്ള ശേഷി കണ്ണാടിയിലുണ്ട് കറൻറ് മിറർ റഫറൻസ് കറന്റിന്റെ ചിത്രം നിർമ്മിക്കുന്നു കറൻറ് മിറർ സർക്യൂട്ട് ഉപയോഗിച്ച് കറന്റുകൾ മുകളിലേക്കോ താഴേക്കോ സ്കെയിൽ ചെയ്യാൻ കഴിയും ഇവിടെ ഗേറ്റ് ഡ്രെയിനിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതാണ് മോസ്ഫെറ്റ് 2 MOSFETs M1 M2 എന്നിവയുണ്ട് ഇവിടെ ഉയർന്ന റഫറൻസുണ്ട് ഇത് Io ആണ് അതിനാൽ Io Ireferenceന്റെ മിറർ യാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് Io യെ Ireferenceന് തുല്യമാക്കാം നമുക്ക് Ireferenceനേക്കാൾ Io കുറവായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് Ireferenceനേക്കാൾ വലിയ Io ഉണ്ടായിരിക്കാം Ireferencek2WL12 1λVDS1 Iok2WL22 1λVDS2 λ0 വേണ്ടി IoIref WL2WL1 സാധാരണയായി രണ്ട് ട്രാൻസിസ്റ്ററുകൾക്കും L തുല്യമാണ് IoIref W2W1 ഞാൻ W1 W2 ആക്കിയാൽ എനിക്ക് ഒരേ കറന്റ് ഉണ്ടാകും എനിക്ക് W1 W2 ഉണ്ടെങ്കിൽ എനിക്ക് ഉയർന്ന കറന്റ് ഉണ്ടാകും എനിക്ക് W1 W2 ഉണ്ടെങ്കിൽ എനിക്ക് താഴ്ന്ന കറന്റ് ഉണ്ടാകും ഫലത്തിൽ എനിക്ക് ഒരു സർക്യൂട്ട് ഉണ്ട് അതിൽ എനിക്ക് കറന്റ് മാറ്റാൻ കഴിയും അത് വൈദ്യുതധാരയുടെ കണ്ണാടിയാണ് λ 0 അല്ലായെങ്കിൽ നമുക്ക് Io യിൽ Iref ന്റെ തനിപ്പകർപ്പ് ഉണ്ടാകുമെന്ന് ഉറപ്പുനൽകാൻ കഴിയില്ല λ 0 ന് തുല്യമല്ലെങ്കിൽ VDS1 VDS2 ന് തുല്യമല്ല അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും ആദ്യത്തേത് λ പരിധി കാരണം പിശകാണ് ഞാൻ VDS2 VDS1 ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ λ യുടെ വർദ്ധനവിന് പിശക് വീണ്ടും വർദ്ധിക്കുന്നു 2 ട്രാൻസിസ്റ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ പൊരുത്തക്കേട് മൂലമുള്ള പിശകാണ് മറ്റൊരു പിശക് നിലവിലെ മിറർ രൂപകൽപ്പന ചെയ്യുന്നതിനായി നമ്മൾ തിരഞ്ഞെടുത്ത 2 ട്രാൻസിസ്റ്ററുകൾ തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ ത്രെഷോൾഡ് വോൾട്ടേജ് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ത്രെഷോൾഡ് വോൾട്ടേജിന് തുല്യമാകില്ല ത്രെഷോൾഡ് വോൾട്ടേജ് തുല്യമല്ലെങ്കിൽ VT1 VT2 ന് തുല്യമാകില്ല തുടർന്ന് ത്രെഷോൾഡ് വോൾട്ടേജുകൾ തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടാകും അതുകൊണ്ടാണ് ഒരു നിശ്ചിത VTക്ക് റഫറൻസ് കറന്റ് വർദ്ധിക്കുകയാണെങ്കിൽ പിശക് വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിരമായ റഫറൻസ് കറന്റിനായി VT വർദ്ധിക്കുകയാണെങ്കിൽ പിശക് വർദ്ധിക്കുന്നത് അതാണ് രണ്ടാമത്തെ പിശക് അത് പിശക് നമ്പർ 2 ആണ് മൂന്നാമത്തെ പിശക് ലേഔട്ട് പൊരുത്തക്കേട് മൂലമാണ് അതിനാൽ നിങ്ങൾ സർക്യൂട്ട് ഡിസൈനിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേഡൻസ് ഉപയോഗിക്കും നിങ്ങൾ ഇത് രൂപകൽപ്പന ചെയ്യുമ്പോൾ ലേഔട്ടിലും ഡിസൈൻ ലേഔട്ടിലും ഒരു പൊരുത്തക്കേട് ഉണ്ടെന്ന് നിങ്ങൾ കാണും അത് വീണ്ടും ഒരു പിശകിലേക്ക് നയിക്കും അതിനാൽ ഇത് ഒരു നിലവിലെ മിറർ പ്രവർത്തനം മാത്രമാണ് നിങ്ങൾ M1 M2 എന്നിവ കാണുകയാണെങ്കിൽ പിശക് VDS വർദ്ധിക്കുകയാണെങ്കിൽ Ireference വർദ്ധിക്കുന്നു എന്റെ Ireference വർദ്ധിക്കുമ്പോൾ M2 ഇതിനകം സാച്ചുറേഷൻ ആണ് എനിക്ക് നിലവിലെ Io യിലേക്ക് മടങ്ങേണ്ടതുണ്ട് കാരണം ഇത് പിന്തുടരേണ്ടതുണ്ട് തുടർന്ന് ഇത് ഈ ദിശയിൽ വർദ്ധിക്കുമ്പോൾ ആണ് നിങ്ങളുടെ കറൻറ് മിറർ ആകുന്നത് ഈ 3 പിശകുകൾ എങ്ങനെ കുറയ്ക്കാം കാസ്കേഡിംഗ് കറന്റ് മിറർ എന്നൊരു സാങ്കേതികതയുണ്ട് അതിനാൽ IoIreference W2W1 ലഭിക്കാൻ നമുക്ക് വേണ്ടത് ഞങ്ങളുടെ λ 0 അല്ലെങ്കിൽ VDS1VDS2 ആണ് എന്നാൽ ഏറ്റവും ലളിതമായ കറന്റ് മിറർ സർക്യൂട്ടിൽ എനിക്ക് ഒന്നുമില്ല അതിനാൽ എനിക്ക് λ0 VDS1 VDS2 എന്നിവ ഉണ്ടാകരുത് പ്രത്യേകിച്ചും നിങ്ങളുടെ VDS1 VDS2 ന് തുല്യമല്ലാത്തപ്പോൾ അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ കാസ്കേഡ് കറന്റ് മിറർ ഉപയോഗിക്കണം കാസ്കേഡ് ചെയ്ത കറന്റ് മിറർ ൽ നമ്മൾ 4 മോസ്ഫെറ്റുകൾ M1 M2 M3 M4 ഉപയോഗിക്കുന്നു നമ്മൾ ഡ്രെയിൻ ഗേറ്റിലേക്ക് ബന്ധിപ്പിക്കുന്നു തുടർന്ന് ഗേറ്റുകൾ ബന്ധിപ്പിക്കുന്നു M3 M4 എന്നിവ ശ്രേണിയിലാണ് M2 M4 എന്നിവയും കാസ്കേഡ് അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എനിക്ക് VDS1 VDS2 ഉണ്ടെങ്കിൽ പിശക് 0 ആയിരിക്കും അതിനാൽ കാസ്കേഡ് കറന്റ് മിറർ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ പഠിക്കുന്നു ഒന്ന് Razavi അദ്ദേഹം നിർദ്ദേശിക്കുന്നത് Io Ireference ന് തുല്യമല്ലെങ്കിൽ λ 0 ആണ് ഈ പ്രത്യേക അവസ്ഥ Io Ireference ന് തുല്യമല്ലെന്ന് നമുക്ക് പരിഗണിക്കാം കാരണം λ 0 ആണ് അതായത് M1 M3 എന്നിവയിലെ അതേ വൈദ്യുത പ്രവാഹം WL VT എന്നിവ തുല്യമാണെന്ന് കരുതുക VGS3VGS1 ആണ് M3 യുടെ ത്രെഷോൾഡ് വോൾട്ടേജും M1 ൻറെ ത്രെഷോൾഡ് വോൾട്ടേജും തുല്യമാണെന്നും ഞാൻ അനുമാനിക്കുന്നു M1 M3 എന്നിവയുടെ WL അനുപാതം തുല്യമാണെന്നും ഞാൻ അനുമാനിക്കുന്നു VGS3VGS1 ഉം M1 M2 എന്നിവയുടെ ഗേറ്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ VGS2 VGS1 ന് തുല്യമായിരിക്കണം ഒരേ വൈദ്യുതധാര M4 M2 എന്നിവയിൽ ഒഴുകുന്നതിനാൽ VGS2 VGS4 ഇപ്പോൾ ഒരേ വൈദ്യുതധാര M4 M2 എന്നിവയിൽ ഒഴുകുന്നതിനാൽ അതായത് ഈ അവസ്ഥയാണെങ്കിൽ VGS4 VGS2 അതിനർത്ഥം VDS2 VDS1 ഇവിടെ നമ്മൾ λ 0 പരിഗണിച്ചു ഈ അവസ്ഥയാണെങ്കിൽ പിശക് ഉണ്ടാകില്ല കാരണം എന്റെ സമവാക്യം IoIreference WL2 W L1 1 λVDS2 1λ VDS1 VDS 2 VDS1 അവസ്ഥ തൃപ്തികരമാണ് നമ്മൾ ഇവിടെ അനുമാനിച്ചതുപോലെ λ 0 മാണ് അതിനർത്ഥം ഞങ്ങളുടെ പിശക് 0 ആയിരിക്കും അതിനാൽ λ 0 ന് തുല്യമല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും അങ്ങനെയാണെങ്കിൽ VDS1 VDS2 ന് തുല്യമാണെന്നും Io Ireferenceസിന് തുല്യമാണെന്നും നമ്മൾ ഇവിടെ കാണും പക്ഷേ M3 M4 എന്നിവയ്ക്ക് λ 0 ആണ് പക്ഷേ M1 M2 എന്നിവയ്ക്ക് λ 0 ന് തുല്യമല്ല Razavi നിർദ്ദേശിച്ച രീതി ഉപയോഗിച്ച് പിശക് ഇല്ലേ എന്ന് കണക്കാക്കാൻ കഴിയുമോ നമുക്ക് എന്തുചെയ്യാൻ കഴിയും അലനും ഹോൾബെർഗും നിർദ്ദേശിക്കുന്ന മറ്റൊരു രീതി നമുക്ക് കാണാൻ കഴിയും ഞാൻ M1 ൽ M3 കാസ്കേഡ് ചെയ്യുകയാണെങ്കിൽ ROUT വർദ്ധിക്കുന്നു ROUT1λIo ROUT വളരെ ഉയർന്നതാണ് അതിനർത്ഥം ഫലപ്രദമായ λ 0 ന് അടുത്തായിരിക്കും അതിനാൽ VDSA അല്ലെങ്കിൽ VDSB തമ്മിൽ പരിമിതമായ പൊരുത്തക്കേട് ഉണ്ടെങ്കിലും ഫലപ്രദമായ λ 0 ന് തുല്യമായതിനാൽ എന്റെ പിശക് കുറവാണ് എന്റെ Io Ireferenceസിന് തുല്യമായിരിക്കും λ യുടെ കുറവുണ്ടാകുമ്പോൾ ROUT വർദ്ധിക്കും കാരണം ROUT λ യുടെ വിപരീത അനുപാതമാണ് VDSA യും VDSB യും തമ്മിൽ പരിമിതമായ പൊരുത്തക്കേട് ഉണ്ട് അതായത് കാസ്കേഡ് കറന്റ് മിറർ ഉപയോഗിക്കുന്നതിലൂടെ ലളിതമായ കറന്റ് മിറർ സർക്യൂട്ടുകളിൽ സൃഷ്ടിക്കുന്ന പിശക് കുറയ്ക്കാൻ അലനും ഹോൾബെർഗും നിർദ്ദേശിച്ചു കറന്റ് മിറർ സർക്യൂട്ടുകളിലെ പിശകുകൾ കാസ്കേഡ് കറന്റ് മിററുകൾ ഉപയോഗിച്ച് കുറയ്ക്കാൻ കഴിയും അതിനാൽ ഇത് കറന്റ് മിററിന്റെ പ്രയോഗത്തിന്റെ അവസാന വിവരണമാണ് മോസ്ഫെറ്റ് കറന്റ് മിറർ ആപ്ലിക്കേഷനായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിച്ചു ഇനി നമുക്ക് പൂരക മെറ്റൽ ഓക്സൈഡ് അർദ്ധചാലകത്തിലേക്ക് നോക്കാം ഞങ്ങൾ ഇതിൽ കൂടുതൽ വിശദമായി പോകില്ല പക്ഷേ ഈ CMOS എങ്ങനെ ഒരു ഇൻവെർട്ടറായി ഉപയോഗിക്കാമെന്ന് ഞങ്ങൾ കാണും അതിനാൽ CMOS എന്നത് പൂരക മെറ്റൽ ഓക്സൈഡ് അർദ്ധചാലകത്തെ സൂചിപ്പിക്കുന്നു കമ്പ്യൂട്ടർ ചിപ്പ് ഡിസൈൻ വ്യവസായത്തിലെ ഏറ്റവും ജനപ്രിയമായ സാങ്കേതികവിദ്യയാണ് CMOS സാങ്കേതികവിദ്യ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ രൂപീകരിക്കുന്നതിന് ഇന്ന് വിശാലമായി ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ സംയോജിത സർക്യൂട്ടുകൾ കാണുമ്പോഴെല്ലാം മിക്ക കേസുകളിലും നിങ്ങൾ CMOS കണ്ടെത്തും ഇന്നത്തെ കമ്പ്യൂട്ടർ മെമ്മറികൾ CPU സെൽ ഫോണുകൾ എന്നിവ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു ഈ സാങ്കേതികവിദ്യ പി ചാനൽ എൻ ചാനൽ അർദ്ധചാലക ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു നിങ്ങൾ പി ചാനൽ എൻ ചാനൽ മോസ്ഫെറ്റുകളെ ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പൂരക മെറ്റൽ ഓക്സൈഡ് അർദ്ധചാലകം ലഭിക്കും വളരെ ചെറിയ വൈദ്യുതി വിസർജ്ജനം ആണ് NMOS അല്ലെങ്കിൽ ബൈപോളാർ ട്രാൻസിസ്റ്ററിനേക്കാൾ CMOS ന്റെ പ്രധാന നേട്ടം വളരെ ചെറിയ വൈദ്യുതി വിസർജ്ജനം ഇത് വളരെ പ്രധാനമാണ് കാരണം നമ്മൾ ഒരൊറ്റ വേഫറിൽ ഘടകങ്ങളുടെ എണ്ണം കുറയ്ക്കുകയോ കൂട്ടുകയോ ഘടകത്തിന്റെ വലുപ്പം കുറയ്ക്കുകയോ സിംഗിൾ വേഫറിലെ ഘടകങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ ചെയ്യും വലുപ്പം കുറയ്ക്കാൻ പോകുമ്പോൾ വൈദ്യുതി ഉപഭോഗവും കുറയുന്നു ബൈപോളാർ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ NMOS സാങ്കേതികവിദ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ CMOS സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇത് സാധ്യമാണ് സർക്യൂട്ട് മാറുകയാണെങ്കിൽ മാത്രമേ വൈദ്യുതി ഇല്ലാതാകൂ അതിനാൽ സർക്യൂട്ട് അനുയോജ്യമാണെങ്കിൽ വൈദ്യുതി ഇല്ലാതാകില്ല അത് ഒരു അവസ്ഥയിൽനിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ മാത്രമേ വൈദ്യുതി ഇല്ലാതാകൂ NMOS അല്ലെങ്കിൽ ബൈപോളാർ സാങ്കേതികവിദ്യയേക്കാൾ IC യിൽ കൂടുതൽ CMOS ഗേറ്റുകൾ സൂചിപ്പിക്കാൻ ഇത് അനുവദിക്കുന്നു കാരണം അത് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ വൈദ്യുതി ഇല്ലാതാകൂ അതിനാലാണ് ബൈപോളാർ NMOS നെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഗേറ്റുകൾ ഉണ്ടാകുന്നത് കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് അർദ്ധചാലക ട്രാൻസിസ്റ്ററിൽ പി ചാനൽ മോസ്ഫെറ്റും എൻ ചാനൽ മോസ്ഫെറ്റും അടങ്ങിയിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നമുക്ക് പി ചാനൽ മോസ്ഫെറ്റുകളും എൻ ചാനൽ മോസ്ഫെറ്റും ഉണ്ട് നിങ്ങൾ കാണുന്നത് നോട്ട് ഗേറ്റാണ് എനിക്ക് CMOS ഒരു നോട്ട് ഗേറ്റായി ഉപയോഗിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ 1 പ്രയോഗിച്ചാൽ ഔട്ട്പുട്ട് 0 ആണ് ഞാൻ 0 പ്രയോഗിച്ചാൽ ഔട്ട്പുട്ട് 1 ആണ് എനിക്ക് എങ്ങനെ പ്രവർത്തിക്കാനാകും ഒരു സ്വിച്ച് ഉണ്ട് VDD എന്റെ വോൾട്ടേജാണെങ്കിൽ ഇത് നിലത്താണെന്ന് നിങ്ങൾ ഇവിടെ കാണുന്നു അതിനാൽ എനിക്ക് S1 ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും S0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും ഇങ്ങനെയാണ് എനിക്ക് മാറ്റം കാണാൻ കഴിയുക ഈ സർക്യൂട്ടിൽ നമുക്ക് ഇവിടെ നോക്കാം ഞാൻ Vx 1 പ്രയോഗിക്കുമ്പോൾ ഇത് PMOS ആണ് അതിനാൽ ഇത് കടത്തിവിടില്ല അതിനാലാണ് ഇത് ട്രാൻസിസ്റ്റർ T1 ആകുന്നത് അത് ഓഫാകും T2 ഓണായിരിക്കും അതിനർത്ഥം എന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും എന്നാൽ എനിക്ക് ഇതിന്റെ വിപരീതമുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ Vx 0 പ്രയോഗിച്ചാൽ T2 ഓഫാണ് T1 ഓണും എന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും ഇവിടെ PMOS NMOS സീരീസിൽ കണക്റ്റുചെയ്തിരിക്കുന്നു അതിനാൽ ഇത് ഈ രീതിയിലാണെങ്കിൽ സർക്യൂട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അത് ഒരു നോട്ട് ഗേറ്റായി ഉപയോഗിക്കാൻ കഴിയും അതിനാൽ CMOS സാങ്കേതികവിദ്യയിൽ ലോജിക് ഫംഗ്ഷനുകൾ രൂപകൽപ്പന ചെയ്യുന്നതിന് N ടൈപ്പ് P ടൈപ്പ് ട്രാൻസിസ്റ്ററുകളും ഉപയോഗിക്കുന്നു ഒരു ട്രാൻസിസ്റ്റർ ഓണാക്കുന്ന അതേ സിഗ്നൽ മറ്റൊന്ന് ഓഫാക്കും ഞാൻ 1 പ്രയോഗിച്ചാൽ ഇത് ഓണായിരിക്കുമ്പോൾ ഇത് ഓഫാണ് 1 ട്രാൻസിസ്റ്റർ ഓണാക്കുന്ന അതേ സിഗ്നൽ തന്നെ മറ്റൊരു ട്രാൻസിസ്റ്റർ ഓഫ് ചെയ്യും പുൾ അപ്പ് റെസിസ്റ്ററുകളുടെ ആവശ്യമില്ലാതെ ലളിതമായ സ്വിച്ചുകൾ മാത്രം ഉപയോഗിച്ച് ലോജിക് ഗേറ്റുകളുടെ രൂപകൽപ്പന ചെയ്യാൻ ഈ സ്വഭാവം അനുവദിക്കുന്നു ഇവിടെ CMOS ലോജിക് ഗേറ്റിൽ എൻ തരം MOSFET കളുടെ ഒരു ശേഖരം പുൾ ഡൌൺ നെറ്റ്വർക്ക് ആയി ക്രമീകരിച്ചിരിക്കുന്നു ഇത് NMOS ലോജിക് ഗേറ്റിൻറെ ലോഡ് റെസിസ്റ്റൻസ്നുപകരം ഔട്ട്പുട്ട്നും ലോ വോൾട്ടേജ് വിതരണത്തിനുമിടയിൽ ആണ് ക്രമീകരിച്ചിരിക്കുന്നത് CMOS ലോജിക് ഗേറ്റുകൾക്ക് ഔട്ട്പുട്ട്നും ഉയർന്ന വോൾട്ടേജിനുമിടയിലുള്ള ഒരു പുൾ അപ്പ് നെറ്റ്വർക്കിൽ P തരം മോസ്ഫെറ്റുകളുടെ ഒരു ശേഖരം ഉണ്ട് ഇവിടെ ലോഡ് റെസിസ്റ്ററുകൾ ഒരു പുൾ അപ്പ് റെസിസ്റ്ററായി ഉപയോഗിക്കുന്നതിനുപകരം പുൾ അപ്പ് നെറ്റ്വർക്കിന്റെ ഭാഗമായി നമുക്ക് പി ടൈപ്പ് മോസ്ഫെറ്റ് ഉപയോഗിക്കാം അതിനാൽ ഇവിടെയാണ് CMOS രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് നമ്മൾ CMOS ലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകില്ല നിങ്ങൾക്ക് ഒരു CMOS നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു NOT ഗേറ്റ് രൂപീകരിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ PMOS NMOS ലേക്ക് അറ്റാച്ചുചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു NOT ഗേറ്റ് ഉപയോഗിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം കൂടാതെ CMOS ന്റെ പ്രയോജനം ഒരു സമയത്ത് മാത്രമേ അത് വൈദ്യുതി നിരാകരിക്കുകയുള്ളൂ ഇത് ഓൺ സ്റ്റേറ്റും ഓഫ് സ്റ്റേറ്റും തമ്മിൽ മാറുമ്പോൾ അല്ലാത്തപക്ഷം അത് ബൈപോളാർ ട്രാൻസിസ്റ്ററുകളേപോലെ വൈദ്യുതി നിരാകരിക്കുക ഇല്ല ഇത് CMOS ന്റെ ഒരു നേട്ടമാണ് അതിനാൽ ഇന്നത്തെ മൊഡ്യൂളിൽ നമ്മൾ കണ്ടത് പി ചാനൽ ഡിപ്ലിഷൻ തരം മോസ്ഫെറ്റ് MOSFET എൻറെ ട്രാൻസ്ഫർ സ്വഭാവസവിശേഷതകൾ കറൻറ് മിററിന്റെ പ്രയോഗം എന്തൊക്കെയാണ് ഏറ്റവും ലളിതമായ കറൻറ് മിററിലെ പിശകുകൾ എന്നിവയാണ് ഏറ്റവും ലളിതമായ കറൻറ് മിററിലെ പിശകുകൾ കുറയ്ക്കുന്നതിന് നമുക്ക് ഒരു കാസ്കേഡ് കറന്റ് മിറർ ഉപയോഗിക്കാം എന്നതാണ് നിർദ്ദിഷ്ട ആശയം ഈ കറന്റ് മിറർ 2 ഗ്രൂപ്പുകളാണ് നിർദ്ദേശിച്ചത് ഒന്ന് റസാവിയിൽ നിന്നും മറ്റൊന്ന് അലൻ ഹോൾബെർഗ് എന്നിവരിൽ നിന്നുമാണ് റാസാവിസ് മോഡലിൽ നമ്മൾ 2 ട്രാൻസിസ്റ്റർ λ 0 മറ്റൊരു 2 ട്രാൻസിസ്റ്റർ λ 0 ന് തുല്യമല്ലെന്ന് കണ്ടെത്തി അത് പ്രവർത്തിക്കില്ല അതിനാലാണ് നമ്മൾ അലനെയും ഹോൾബെർഗിനെയും പരിഗണിക്കേണ്ടിവന്നത് അലൻ ഹോൾബെർഗ് എന്നിവർ പറഞ്ഞത് ട്രാൻസിസ്റ്ററുകളെ കാസ്കേഡ് കറന്റ് മിറർ ഫാഷനിൽ അറ്റാച്ചുചെയ്യുകയാണെങ്കിൽ ROUT വർദ്ധിക്കും ROUT λ യുടെ വിപരീത അനുപാതത്തിലായതിനാൽ ROUT വർദ്ധിച്ചാൽ λ കുറയുന്നു ഇതിനർത്ഥം Ireference ലും Ioയിലും തമ്മിൽ അന്തിമ വ്യത്യാസമുണ്ടെങ്കിലും ഉടനീളം വോൾട്ടേജും പിശകും തമ്മിൽ അന്തിമ വ്യത്യാസമുണ്ടെങ്കിൽ പോലും പിശക് 0 ന് അടുത്തായിരിക്കും അതിനർത്ഥം അലനും ഹോൾബെർഗും മുന്നോട്ടുവച്ച ഈ പ്രത്യേക മോഡൽ മനസിലാക്കാൻ കൂടുതൽ അർത്ഥമുണ്ടാക്കുന്നു ലളിതമായ കറന്റ് മിറർ പിശകുകൾ എങ്ങനെ കുറയ്ക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ഇപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഓപ്പറേഷൻ ആംപ്ലിഫയറുകൾ എന്താണെന്നും ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ സവിശേഷതകൾ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും അതിനാൽ ഞാൻ നിങ്ങളെ അടുത്ത ക്ലാസ്സിൽ കാണും കൂടാതെ നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയറുകൾ മനസിലാക്കാൻ തുടങ്ങും ഇതിനെ ഒപ്പ് ആമ്പ്സ് എന്നും വിളിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കേണ്ട ഒപ് ആമ്പുകൾ മോസ്ഫെറ്റുകൾ ഐസികൾ എന്നിവ ഒരേ സമയം എങ്ങനെ കെട്ടിച്ചമച്ചതാണെന്നതിനെക്കുറിച്ചുള്ള ധാരണയും ആശയവും നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് കോഴ്സുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മൾ കുറച്ച് വിഷയങ്ങളുടെ അടിസ്ഥാനം പഠിക്കും അതിനാൽ നിങ്ങളുടെ അനലോഗ് സർക്യൂട്ട് ഡൊമെയ്നിലെ മിക്ക വിഷയങ്ങളും ഉൾക്കൊള്ളാൻ ഇത് നിങ്ങളെ സഹായിക്കും ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നതിനേക്കാൾ അഡ്വാൻസ് പതിപ്പായ മറ്റൊരു കോഴ്സ് ഉണ്ട് എന്നാൽ അടിസ്ഥാനകാര്യങ്ങൾ മാത്രമല്ല പരീക്ഷണ വീക്ഷണവും ഉൾക്കൊള്ളുന്ന എന്തെങ്കിലും ഉപയോഗിച്ച് ആരംഭിക്കാം അതിനാൽ ഈ കോഴ്സിന്റെ ഭാഗമായി ധാരാളം പരീക്ഷണങ്ങളും നമ്മൾ കാണും അതിനാൽ ഈ ഘട്ടത്തിൽ ഞാൻ ഈ മൊഡ്യൂൾ പൂർത്തിയാക്കുന്നു ഞാൻ നിങ്ങളെ അടുത്ത ക്ലാസ്സിൽ കാണും അതുവരെ